പ്രൊഫസർബാല ഓക്കേ ഹലോ സ്വാഗതം ഡിസൈൻ തിങ്കിംഗ് ഈ ഭാഗം പഠിക്കാൻ സ്വാഗതം ഡിസൈൻ തിങ്കിംഗ് ചരിത്രത്തെപ്പറ്റിസംസാരിക്കാം 1960കളിലെ ആണ് ഡിസൈൻസ് തിങ്കിംഗ് ആരംഭം ഞാനിപ്പോൾ ക്രിയേറ്റീവ് എൻജിനീയറിങ് പറ്റി ആണ് സംസാരിക്കുന്നത് ഡിസൈൻ തിങ്കിംഗ്ൻറെ മുന്നേ ഉണ്ടായതാണ് 1950 കളിലാണ് ഉണ്ടായത് ജോൺ E ആർനോൾഡ് John E Arnold വ്യക്തിയാണ് ഇതിൻറെ ഉപജ്ഞാതാവ് അദ്ദേഹം അമേരിക്കയിലെ മസ്സാചുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നസ്ഥാപനത്തിൽ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രൊഫസർ ആയിരുന്നു കൂടാതെ കമ്പനികളുടെ കൺസൾട്ടൻസ് കൂടിയായിരുന്നു അദ്ദേഹം ക്രിയേറ്റീവ് എൻജിനീയറിങ് കോഴ്സ് ആണ് പഠിപ്പിച്ചു കൊണ്ടിരുന്നത് ഒരു ക്ലാസ്സുഎൻറെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുവാൻപറ്റും എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അനുഗ്രഹിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള ഒരു സൃഷ്ടിയായി മാത്രമാണ് അക്കാലത്തെ ആളുകൾ ക്രിയേറ്റിവിറ്റി എന്നതിനെ കണ്ടിരുന്നത് ജോൺ ആർനോൾഡ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻജിനീയർരീതി ആയിരുന്നു ആ കാഴ്ചപ്പാടിൽ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് ഇഷ്ടപ്പെട്ട വിഷയം സയൻസ് ഫിക്ഷൻ ആയിരുന്നു വിദ്യാർഥികൾക്ക് വളരെയധികം ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒന്നാണ് സയൻസ് ഫിക്ഷൻ ഇന്നത്തെ കാലത്തുനിന്ന് ആയിരം കൊല്ലം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അക്കാര്യം അജ്ഞാതമാണ് എന്നാൽ ആളുകൾക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്ന ഒരു കാര്യമാണിത് അദ്ദേഹം ആ ഒരു കാര്യത്തെയാണ് പ്രയോജനപ്പെടുത്തിയത് ഞാൻ ഇന്ത്യയിൽ ആണ് എനിക്ക് മറ്റുള്ള പ്രദേശത്തുള്ള ആളുകളെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് മറ്റുള്ള പ്രദേശത്തെ ആളുകളെ പറ്റി അവരുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇറ്റലിയിലെ ആളുകളെ പറ്റി ചിന്തിക്കുവാൻ സാധിക്കും കുഴപ്പം ഉള്ളത് ഇവിടെ ശരിയായത് അവിടെ ശരിയാണ് എന്ന വിചാരമാണ്

അതിനെ ഡിസൈൻ തിങ്കിംഗ് തെറ്റുകൾ എന്ന് വിളിക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട കേസ് സ്റ്റഡി ആണ് ആ സമയത്തെ ഒരു പ്രധാനപ്പെട്ട കേസ് സ്റ്റഡി ആണ് കേസ് സ്റ്റഡി ആർക്റ്ററസ് IV എന്നു വിളിക്കുന്നു കേസ് സ്റ്റഡിനോക്കാം ആർക്റ്ററസ്IV നക്ഷത്ര സമൂഹം ബൂട്ട്സ് Bootes എന്നതിലെഒരു നക്ഷത്രമാണ് 33 പ്രകാശവർഷം ദൂരെയുള്ള നക്ഷത്രം ആണ് ഒരു പ്രകാശവർഷം എന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഒരു വർഷം വളരെ ദൂരം പ്രകാശം സഞ്ചരിക്കുന്നു ആയതിനാൽ 33 വർഷം കൊണ്ട് വളരെയധികം സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഒരു സിഗ്നൽ ഭൂമിയിൽനിന്ന് അയച്ചാൽ അത് അവിടെ കിട്ടാൻ 33 വർഷം പിടിക്കും കുട്ടികളുടെ അടുത്ത് ആർക്റ്ററസ് പറ്റി ചിന്തിക്കുവാൻ ആവശ്യപ്പെട്ടു അവിടെ ഒരു ചെറിയ സംസ്കാരമുണ്ട് എന്ന് ചിന്തിക്കുവാൻ ആവശ്യപ്പെട്ടു ആയിരം വർഷം കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ആളുകൾ പോകും എന്നിട്ട് അവിടെ ബിസിനസ് സ്ഥാപിക്കും അതിന് അദ്ദേഹം Massachusetts intergalactic travel companyമസാച്ചുസെറ്റ്സ് ഇന്റർഗാലാക്റ്റിക് ട്രാവൽ കമ്പനിഎന്നു വിളിച്ചു ആയിരം കൊല്ലം കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകുന്ന കമ്പനിയാണ് ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് ആ അന്യഗ്രഹ ജീവികൾ ആ അന്യഗ്രഹജീവികൾക്ക് മൂന്ന് വിരലുകൾ മാത്രമാണ് ഉള്ളത് ആ ജീവികൾ നമ്മളെ പോലെയല്ല ആ ജീവികൾക്ക് 3 കണ്ണുകളുണ്ട് അവർക്ക് x rays കാണാൻ പറ്റും ആ നക്ഷത്രത്തിൽ ഓക്സിജൻ ഇല്ല പകരം മീഥേൻ ആണുള്ളത് അതുകൊണ്ട് അന്യഗ്രഹ ജീവികളെ Methanians എന്നു വിളിക്കുന്നു അത് ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് ഊഷ്മാവ് വ്യത്യസ്തമാണ് ശരാശരി ചൂടുകാലത്ത് ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് 50° Cആണ് Winter കാലത്ത് ശരാശരി ഊഷ്മാവ് 110° Cആണ് ഭൂമിയിൽ സത്യമായത് അവിടെ സത്യമായി കൊള്ളണമെന്നില്ല അവിടുത്തെ ഗ്രാവിറ്റി ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ 11 ഇരട്ടിയാണ് അതിനാൽ ഇവിടെ 11 മീറ്റർ ചാടുന്ന ആൾക്ക് അവിടെ ഒരു മീറ്ററാണ് ചാടാൻ സാധിക്കുക വ്യവസായ നേട്ടങ്ങളുടെയും കാര്യത്തിൽവളരെ പിന്നിലാണ് അതുകൊണ്ട് ആർക്റ്ററസ് IV നക്ഷത്രത്തിലേക്ക് കൺസൾട്ടൻമാരായി ഭൂമിയിൽനിന്ന് ആളുകൾ പോകേണ്ടിവരും ചില ആളുകളുടെ അടുത്ത് നമ്മുടെ സ്കൂട്ടർ പോലെയുള്ള വണ്ടികൾ ഉണ്ടായെന്നു വരാം അതാണ് അവരുടെ വികസനത്തിന് തോത് അതുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളുടെ അടുത്ത് അവരെ പറ്റി ചിന്തിക്കാൻ അല്ല ആവശ്യപ്പെട്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത സംസ്കാരത്തിൽ വ്യത്യസ്ത പരിസ്ഥിതിയിൽ ഉള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു ഡിസൈൻ തിങ്കിംഗ് ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ മറ്റൊരു ജനറേഷന് ഒരു യാഥാർത്ഥ്യം ആയിരിക്കില്ല മറ്റു സംസ്കാരത്തിന് യാഥാർഥ്യം ആയിരിക്കില്ല മറ്റു പരിസ്ഥിതിക്ക് യാഥാർത്ഥ്യം ആയിരിക്കില്ല അതാണ് പ്രൊഫസർ ആർനോൾഡ് സൂചിപ്പിച്ചത് കുട്ടികൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു പല കമ്പനികളും പ്രൊഫസർ ആർനോൾഡ് എന്ന വ്യക്തിയെ ക്ഷണിച്ചു കമ്പനിക്കും കമ്പനിയുടെ ജോലിക്കാർക്ക് വേണ്ടിയും അദ്ദേഹത്തിന് സേവനത്തെ പ്രയോജനപ്പെടുത്തി സ്ലൈഡ്നോക്കുക ഡിസൈൻ ചെയ്ത ഒരു ഉപകരണമാണ് Slide ൽ കാണുന്നത് Eggomobile എന്നതാണ് ഇതിൻറെ പേര് ഇത് ഒരു യാത്രയ്ക്കുള്ള വാഹനമാണ് ഒരു കുട്ടി ഡിസൈൻ ചെയ്ത ഒരു ഉപകരണമാണ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ വളരെ പ്രശസ്തമായിരുന്നു Methaniance മുട്ട പോലെയുള്ള സ്ഥലത്താണ് ഇരിക്കുക അവരുടെ കാലുകൾ വളരെ വലുതാണ് ശരീരപ്രകൃതി വ്യത്യാസമാണ് ഉയരത്തിൽ വ്യത്യാസമുണ്ട് ഇത് Methaniansവേണ്ടി ഭൂമിയിലെ ആളുകൾ ഡിസൈൻ ചെയ്തതാണ്

ഒരു സർഗാത്മകത കുട്ടികളുടെ മനസ്സിലുണ്ടായി അതുകൊണ്ട് വളരെ പ്രശസ്തമായി അതുപോലെ പ്രൊഫസർ ആർനോൾഡ് പ്രശസ്തമായി പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡി ആണ് archive dot org ൽകേസ് സ്റ്റഡി ലഭ്യമാണ് സ്ലൈഡ്നോക്കുക ഞാൻ ഇവിടെ reference list തരാം John Arnold Jr എന്ന പ്രൊഫസർ ആർനോൾഡ്ൻറെ മകൻ archive dot org എന്നതിൽ പ്രസിദ്ധീകരിച്ചത് ആവാം സ്ലൈഡ്നോക്കുക പ്രൊഫസർ ആർനോൾഡ് നമുക്ക് കാണിച്ചു തന്നു ആർക്റ്ററസ് IV പഴങ്ങൾ എങ്ങനെയാണ് ചെടികൾഎങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെടികൾ വളരുന്നു എങ്ങനെ പഴങ്ങൾ വളരുന്നു അത് എങ്ങനെ ഇരിക്കും അതുപോലെ ആർക്റ്ററസ് IV പരിസ്ഥിതി എങ്ങനെ ആയിരിക്കും ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് തൻറെ കുട്ടികൾക്ക്കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത്